എംബഡഡ് സിസ്റ്റത്തിന്റെ എംബഡഡ് ബ്ലോക്കിന്റെ രൂപകൽപ്പന സിസ്റ്റത്തിന്റെ ആദ്യത്തെ ബ്ലോക്കിന്റെ രൂപകൽപ്പന നമുക്ക് നോക്കാം അത് പവർ സപ്ലൈആണ് നിങ്ങളുടെ ഐഒടി ആപ്ലിക്കേഷനായി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന എംബഡഡ് സിസ്റ്റത്തിന്റെ പവർ സപ്ലൈ ബ്ലോക്ക് ഇത് സിപിയു ആകാം അവിടെ റേഡിയോ ഉണ്ടാകാം ഒരു റേഡിയോക്ഷമിക്കണം ഇത് വ്യക്തമായി എഴുതട്ടെ ഇത് സിപിയു ആകാം അതിനാൽ ഇവിടെ സിപിയു തുടർന്ന് റേഡിയോ കുറഞ്ഞ പവർ റേഡിയോ മെമ്മറി യെക്കുറിച്ച് എന്താണ് അതിനാൽ അവയെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിന് നിങ്ങൾക്ക് വൈദ്യുതി ആവശ്യമാണ് നിങ്ങൾക്ക് റേഡിയോയുംസിപിയു ബ്ലോക്കും തമ്മിലുള്ള ആശയവിനിമയം ആവശ്യമാണ് കൂടാതെ മെമ്മറി ഫ്ലാഷ് മെമ്മറി യും ഉണ്ട് ഇവിടെയുള്ള ഈ സിസ്റ്റങ്ങളെല്ലാം ഒന്നുകിൽ ഫ്ലാഷ് മെമ്മറി അല്ലെങ്കിൽ റേഡിയോഅല്ലെങ്കിൽ മറ്റേതെങ്കിലും പെരിഫറൽ ബ്ലോക്കുകളാണ് അവയെല്ലാം ക്ലോക്കിൽ പ്രവർത്തിക്കും ഒരൊറ്റ ക്ലോക്കിൽ സിപിയുവിൽ ജനറേറ്റുചെയ്ത ക്ലോക്കിൽ ഇത് അനലോഗ് ടു ഡിജിറ്റൽ ആകാം എല്ലാ അനലോഗ് സെൻസർ ഇൻപുട്ടുകളും എടുക്കുന്ന അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ആകാം ഇതിലൂടെ നിങ്ങളുടെ പ്രത്യേക അപ്ലിക്കേഷന് ആവശ്യമായ കൺട്രോളർഅനുസരിച്ച് നിങ്ങൾക്ക് 8 എഡിസി പോർട്ടുകൾ ഉണ്ടായിരിക്കാം 10 എഡിസി പോർട്ടുകൾ 12 എഡിസി പോർട്ടുകൾ ഉണ്ടായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ഇന്റർഫേസ് ചെയ്യാൻ കഴിയുന്ന ഒന്നിലധികം എഡിസി പോർട്ടുകൾ ഉണ്ട് അതിനാൽ ഈ ബ്ലോക്ക് ഇപ്പോൾ വിശദീകരിക്കേണ്ടതുണ്ട് സമ്പൂർണ്ണ ബ്ലോക്കിന് മാത്രമല്ല വൈദ്യുതി വിതരണം ചെയ്യുന്ന മറ്റ് ബ്ലോക്കുകൾക്കും ഈ സമ്പൂർണ്ണ ബ്ലോക്കിന് സ്ഥിരമായ വൈദ്യുതി നൽകാൻ കഴിയുന്ന തരത്തിൽ ഈ പവർ സപ്ലൈ ബ്ലോക്ക്എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് നമ്മൾ മനസിലാക്കണം ഉദാഹരണത്തിന് ADC ബ്ലോക്കിലേയ്ക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ ആ സെൻസറുകൾക്ക് പവർ ആവശ്യമാണ് അതിനാൽ ഈ പവർ സപ്ലൈയിലും ഈ സെൻസർ ബ്ലോക്കിലുംsensor block വൈദ്യുതി ലഭ്യമാക്കേണ്ടതുണ്ട് അതിനാൽ ഇതാണ് പ്രധാനം പവർ സപ്ലൈ ബ്ലോക്ക് ആയ ഈ ഒരു ഭാഗത്ത് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം നമുക്ക് മുന്നോട്ട് പോകാം ഈ വൈദ്യുതി വിതരണ ബ്ലോക്കിന്റെ പ്രധാന ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആരംഭിക്കുന്നതിന് ഊർജ്ജ സ്രോതസ്സ് എടുക്കുക ഈ ഊർജ്ജ സ്രോതസ്സിൽ എന്താണ് പ്രശ്നം സംഗതി മറ്റൊന്നാണ് ഈ ഊർജ്ജ സ്രോതസ്സുകൾ എന്തൊക്കെയാണ് അത് ഒരു ബാറ്ററിയാകാം അല്ലെങ്കിൽ ഒരു ജനറേറ്ററിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമറിലൂടെയും ആകാം ഈ ഊർജ്ജ ഉൽപാദന സ്രോതസ്സുകൾക്ക് വോൾട്ടേജ് കറന്റ് വ്യതിയാനങ്ങളും ഉണ്ടാകുന്നു സമയത്തിനനുസരിച്ച് അവയ്ക്ക് ധാരാളം വോൾട്ടേജ് കറന്റ് voltagecurrent വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു ഇതിനർത്ഥം ഇത് വളരെ ഗൌരവമുള്ളതും അസ്വസ്ഥവുമായ വൈദ്യുതി വിതരണത്തിലേക്ക് നയിക്കുന്നു ഈ ഊർജ്ജ സ്രോതസ്സുകളിൽ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഒരു പ്രശ്നമാകാം ഇത് വളരെയധികം വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഫീൽഡിലെ സിസ്റ്റം ഒരു നല്ല വൈദ്യുതി വിതരണം ചെയ്യുന്നു ഈ ഊർജ്ജ സ്രോതസ്സുകൾ യഥാർത്ഥത്തിൽ സമയത്തിനനുസരിച്ച് ഈ വോൾട്ടേജ് കറന്റ് voltagecurrentവ്യതിയാനങ്ങളിലൂടെ കടന്നുപോകുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം പ്രശ്നം ശരിക്കും ഉയർന്ന പവർ സ്വിച്ചിംഗ് മൂലമാണ് ഇത് മുമ്പ് നമ്മൾ കാണിച്ച എല്ലാ ബ്ലോക്കുകളുമുള്ള എസ്ഒസി സിസ്റ്റം ഓൺ ചിപ്പ് എന്നിവയ്ക്കുള്ളിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ അത് വളരെ ഉയർന്ന വേഗതയിൽ മാറുകയും വൈദ്യുതി വിതരണത്തിൽ വളരെയധികം ഏറ്റക്കുറച്ചിലുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഡിഎസ്പി ഡിജിറ്റൽ സിഗ്നൽ പ്രൊസസിങ്ങിൽ നിന്നാകാം അതിനാൽ നിങ്ങൾ ഊർജ്ജ സ്രോതസ്സിന്റെ പങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ പങ്ക് എന്നാണ് കാരണം വൈദ്യുതി സ്രോതസ്സിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പവർ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഈ വോൾട്ടേജ് റെഗുലേറ്ററിനു ഒരു പവർ സപ്ലൈയിൽ ഒരു പ്രധാന പങ്ക് ഉണ്ടായിരിക്കും വൈദ്യുതി വിതരണം സ്ഥിരവും കൃത്യവും ഏതെങ്കിലും ലോഡിൽ നിന്ന് സ്വതന്ത്രവും ആണെന്ന് വോൾട്ടേജ് റെഗുലേറ്റർ ഉറപ്പാക്കണം ഏത് ലോഡ് വോൾട്ടേജുകളിൽ നിന്നും സ്വതന്ത്രമായിരിയിരിക്കണം അതിനാൽ ലോഡ് വോൾട്ടേജിന്റെ ആവശ്യകത എത്ര ആയാലും അതിലൂടെയുള്ള ഈ വൈദ്യുതി വിതരണത്തിന് റെഗുലേറ്റർ ഈ മികച്ച സവിശേഷതകളെല്ലാം നൽകും അതിനാൽ എന്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഊർജ്ജ സ്രോതസ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും വേഗത്തിലുള്ള പ്രതികരണത്തിനുള്ള കഴിവാണ്ഇത് പലപ്പോഴും അവഗണിക്കപ്പെടുന്നു പക്ഷേ ഇത് വളരെ നിർണായകമാണ് അതിനാൽ ഞാൻ ഇവിടെ ഒരു ബാൻഡ് ഉപയോഗിച്ച് കാണിക്കാം ഇത് ശരിക്കും പ്രധാനമാണ് അതിനർത്ഥം നിങ്ങൾ റെഗുലേറ്ററിന്റെ ബാൻഡ്വിഡ്ത്തിന് വളരെയധികം ജാഗ്രത പാലിക്കണമെന്നാണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സവിശേഷതയാണ് ഒരു ഡാറ്റ ഷീറ്റിൽ നിങ്ങൾ നോക്കണം മറ്റൊരു കാര്യം നിങ്ങൾ ഊർജ്ജസ്രോതസ്സിനെ ക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച എല്ലാ സവിശേഷതകളും ഈ ഊർജ്ജസ്രോതസ്സ് നൽകുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് നിങ്ങൾക്ക് ആവശ്യമായ ഹെഡ് റൂം എന്താണെന്നും നിങ്ങൾ നോക്കേണ്ടതുണ്ട് സ്ഥിരത പോലെ അത് വളരെ കൃത്യമായിരിക്കണം അതിനാൽ ഈ ആവശ്യകതകളെല്ലാം എല്ലാ പരാമീറ്ററുകളും നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വോൾട്ടേജ് റെഗുലേറ്റർ പവർ ഉപയോഗിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് വളരെ കുറഞ്ഞ പവർ ആയിരിക്കണം അതിനർത്ഥം നിങ്ങൾ റെഗുലേറ്റർ ഉള്ള പവർ സപ്ലൈ ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഊർജ്ജ വിതരണം എന്ന് പറയുമ്പോൾ റെഗുലേറ്ററിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും തന്നിരിക്കുന്ന ഇൻപുട്ട് വച്ച് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട്ലഭിക്കും ഇതിലുടനീളമുള്ള ഡ്രോപ്പ് ചെറുതായിരിക്കണം ഇത് പ്രധാനപ്പെട്ടതാണ് ഇത് കഴിയുന്നത്ര ചെറുതായിരിക്കണം പക്ഷേ അത് ആവശ്യമായ പവർഔട്ട്പുട്ട്നിങ്ങൾക്ക് നൽകും അതിനാൽ നമുക്ക് അത് പല തരത്തിൽ ശരിയായി ചെയ്യാൻ കഴിയും നമുക്ക് ഒരു 12 വോൾട്ട് ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക കുറച്ചുകൂടി വ്യക്തമായി എഴുതാൻ എന്നെ അനുവദിക്കുക

നിങ്ങൾക്ക് ഒരു 12 ബാറ്ററി batteryയുണ്ടാകാം നിങ്ങൾ 12 വോൾട്ട് ഇൻപുട്ട് നൽകാൻ പോകുന്നു നിങ്ങൾ 5 വോൾട്ട് ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്നു ഔട്ട്പുട്ട് അർത്ഥമാക്കുന്നത് ലോഡിലൂടെ ഒഴുകുന്നത് 1 ആമ്പിയർ ആണെന്ന് പറയാം നിങ്ങൾക്ക് 5 വാട്ട്സ് പവർ ഉണ്ട് നിങ്ങൾ ഇവിടെ 7 വോൾട്ട് ഡ്രോപ്പ് ഉണ്ടാക്കുന്നു കറന്റും യഥാർത്ഥത്തിൽ റെഗുലേറ്ററിലൂടെ കടന്നുപോകുന്നു 7 വോൾട്ടിൽ ഒരു ആമ്പിയർ ഒഴുകുമ്പോൾ 7 വാട്ടസ് ഉണ്ടാകുന്നു ഇതിനർത്ഥം റെഗുലേറ്ററിനെ തണുപ്പിക്കാൻ ഒരു വലിയ ഹീറ്റ് സിങ്ക് ആവശ്യമാണ് അതിനാൽ ഇത് ഒരു നല്ല ഡിസൈൻ അല്ല ഒരു നല്ല ഡിസൈൻ എന്തായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോഴും 12 വോൾട്ട് ബാറ്ററി ഉണ്ട് മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ നിങ്ങൾ ഇത് 5 2 വോൾട്ടിലേക്ക് കുറയ്ക്കുന്നു ഇവിടെ നിങ്ങൾ 5 വോൾട്ട് സൃഷ്ടിക്കുന്നു ഇത് ലോഡിനെപരിപാലിക്കുന്ന വോൾട്ടേജ് റെഗുലേറ്ററാണ് ഈ ബ്ലോക്ക് 12 വോൾട്ട് എടുത്ത് ഔട്ട്പുട്ടിൽ 5 2 നൽകുന്നു ഇവിടെ നിങ്ങൾ 0 2 വോൾട്ട് ഡ്രോപ്പ് ചെയ്തു ഒരു ആമ്പിയറിനെ മാറ്റുക എന്നത് ലോഡിന്റെ നിലവിലെ പരിഗണനയായിരുന്നു മുമ്പത്തെ സിസ്റ്റത്തിന്റെ ഉയർന്ന ശക്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഇപ്പോൾ ഇരുനൂറു മില്ലി വാട്ടാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഡ്രോപ്പ് നിസ്സാരമാണ് അതിനാൽ ഹീറ്റ് സിങ്കോ മറ്റോ ആവശ്യമില്ല ഇപ്പോൾ മിക്ക എംബഡഡ് ഡിസൈനുകളും എംബഡഡ് സർക്യൂട്ടുകളിലും നിങ്ങൾ കാണുന്നത് പ്രധാനമായും ഇതുപോലുള്ള ഈ ഭാഗങ്ങൾ ആണ് ടാബ്ലെറ്റ് ഫോണുകൾ tablet phones പോലുള്ള ജനപ്രിയ എംബഡഡ് ഉപകരണങ്ങൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ജനപ്രിയ ഗേറ്റ്വേ ബോർഡുകളോ ഏതെങ്കിലും സെൻസർ ബോർഡുകളോ സെൻസർ ബോർഡുകളിൽ മോട്ട് ക്ലാസ് ഉപകരണങ്ങൾ പോലുള്ള ബോർഡുകളുണ്ട് അവ ടെലോസ് ബി മൈക്ക 2 നോഡുകൾ അല്ലെങ്കിൽ മൈക്ക ഇസഡ് പോലെയാകാം മൈക്ക 2 മൈക്ക z അങ്ങനെ അല്ലെങ്കിൽ സോളേർഷൃ ഇവയെല്ലാം ജനപ്രിയ മോട്ട് ക്ലാസ് ഉപകരണങ്ങളാണ് അവയെല്ലാം എംബഡഡ് സിസ്റ്റങ്ങൾ ആണ് എംബഡ് ചെയ്ത ബോർഡുകളിൽ ഒരു സിപിയു ഉണ്ടായിരിക്കും റേഡിയോഉണ്ടായിരിക്കും അതിൽ പ്രോഗ്രാമിംഗിനായി യുഎസ്ബിയിൽ നിന്ന് ഫ്ലാഷ് ഇന്റർഫേസും ഉണ്ടായിരിക്കും പക്ഷേ അവയ്ക്ക് തീർച്ചയായും ഈ വോൾട്ടേജ് റെഗുലേറ്റർ ബ്ലോക്ക് ഉണ്ടായിരിക്കും എംബഡഡ് രൂപകൽപ്പനയുടെ ഭാഗമായ ഈ ബ്ലോക്ക് പ്രധാനമായും ഇത്തരത്തിലുള്ള ഭാഗത്തെ പിന്തുടരും പക്ഷേ ഇത് ഇവിടെ നടപ്പിലാക്കും ഈ ഭാഗം നിങ്ങൾ 5 2 വോൾട്ട് പോലുള്ള ഇൻപുട്ടായി എടുക്കുകയും ഔട്ട്പുട്ടിൽ 5 വോൾട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ 5 വോൾട്ട് ഇൻപുട്ടായി എടുക്കുകയും നിങ്ങൾ 3 3വോൾട്ട് ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇതും ഒരു ജനപ്രിയ മാർഗ്ഗമാണ് എന്നാൽ ഇവിടെ ഡ്രോപ്പ് ചെറുതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് 1 7 വോൾട്ട് മാത്രമാണ് കറന്റ് വളരെ ഉയർന്നതല്ല എങ്കിൽ ഈ റെഗുലേറ്റർ ബ്ലോക്കിന്റെ പവർ ചെറുതാകും ഏതെങ്കിലും തരത്തിലുള്ള ഹീറ്റ് സിങ്ക് പ്രയോഗിക്കാൻ ഇത് ആവശ്യപ്പെടുന്നില്ല അതിനാൽ നമുക്ക് ഈ വോൾട്ടേജ് റെഗുലേറ്റർ ബ്ലോക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതിനുള്ള ജനപ്രിയ നാമം ലോ ഡ്രോപ്പ് ഔട്ട് റെഗുലേറ്റർ എന്നാണ് അതിനാൽ ലോ ഡ്രോപ്പ് ഔട്ട് റെഗുലേറ്റർ ഒരു ലീനിയർ റെഗുലേറ്ററാണ് ഈ ബ്ലോക്കിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ഓർക്കുക നമ്മൾ വിശദീകരിച്ചിട്ടില്ലാത്ത ഈ ബ്ലോക്ക് 12 വോൾട്ട് ഇൻപുട്ടായി എടുക്കുന്നു 5 2 വോൾട്ട് ഔട്ട്പുട്ടിൽ ജനറേറ്റുചെയ്യുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ ഞാൻ പരാമർശിക്കാൻ പോകുന്നത് ഈ ബ്ലോക്ക് നിങ്ങൾ കാണുന്ന ഈ ബ്ലോക്കിനെ എ എന്ന് വിളിക്കാം നമുക്ക് ഈ ബ്ലോക്കിനെ ബി എന്ന് വിളിക്കാം ബ്ലോക്ക് എ സാധാരണഗതിയിൽ സ്വിച്ചിംഗ് റെഗുലേറ്ററാണ് കാരണം നിങ്ങൾ ഒരു ലീനിയർ റെഗുലേറ്റർ ഉപയോഗിക്കാത്തതാണ് ഞാൻ ഇവിടെ കാണിച്ച ബ്ലോക്ക് പോലുള്ള ഒരു ലീനിയർ റെഗുലേറ്റർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു വലിയ ഹീറ്റ് സിങ്ക് ആവശ്യമാണ് കാരണം നിങ്ങൾ റെഗുലേറ്ററിലുടനീളം 7 വോൾട്ട് ഡ്രോപ്പ് ചെയ്യുന്നു കൂടാതെ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ 5 വോൾട്ട് ഔട്ട്പുട്ടിൽ ഉത്പാദിപ്പിക്കുന്നു ലോഡ് കറന്റ് 1 ആമ്പിയർ ആണെന്ന് ഞാൻ അനുമാനിച്ചു ഇത് ഒരു ലാഭകരമായ ഓപ്ഷനല്ല പകരം ഈ സ്വിച്ചിംഗ് റെഗുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനോട് അടുത്ത് എത്തിക്കുക അതിനുശേഷം നിങ്ങൾ കണ്ടീഷനിംഗ് ശരിയായി ചെയ്യുന്നു അതിനാൽ സ്വിച്ചിംഗ് റെഗുലേറ്റർ ഒരു കാര്യക്ഷമമായ റെഗുലേറ്ററാണ് അതിന് ചില പ്രവർത്തനങ്ങളുണ്ട് അത് നമ്മൾ പിന്നീട് അഭിസംബോധന ചെയ്യും ഈ ഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇവിടെ നിങ്ങൾക്ക് ഇൻപുട്ടിൽ 5 2 വോൾട്ട് ലഭിക്കുന്നു ഒപ്പം ഔട്ട്പുട്ടിൽ 5 വോൾട്ട് സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് output ഔട്ട്പുട്ട് വെറും 200 മില്ലി വോൾട്ട് ആണ് ഇത് 1 ആമ്പിയർ ആണ് അതിനാൽ നിങ്ങൾക്ക് 200 മില്ലി വാട്ട് വെറും 200 മില്ലി വാട്ട് ഈ റെഗുലേറ്ററിലുടനീളം നഷ്ടപ്പെടുന്നു ഇതിനെ ലോ ഡ്രോപ്പ് ഔട്ട് റെഗുലേറ്റർ എന്നും വിളിക്കുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോ ഡ്രോപ്പ് ഔട്ട് റെഗുലേറ്റർ ഒരു ലീനിയർ റെഗുലേറ്ററാണ് കൂടാതെ ഒരു ഡാറ്റ ഷീറ്റ് വീക്ഷണകോണിൽ ഇതിന് അതിശയകരമായ ഒരു സവിശേഷതയുണ്ട് അത് നമ്മൾ മറക്കരുത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഉദാഹരണം എടുക്കുക 2 ദൃശ്യമാകുമെന്ന് നമ്മൾ പറഞ്ഞത് ഓർക്കുക കാരണം ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുക്കാത്ത ഈ സ്വിച്ചിംഗ് റെഗുലേറ്റർ സ്വിച്ച് ബ്ലോക്ക് എ യും ഇവിടെ ബ്ലോക്ക് എ ഉണ്ട് പിന്നീട് ഇത് വിശദീകരിക്കാം നിങ്ങൾക്ക് ഇവിടെ 5 വോൾട്ട് ലഭിക്കുന്നു അതിനാൽ ഇവിടെ നിന്ന് ആരംഭിക്കാം5 2 വോൾട്ട് ആണ് ഇൻപുട്ട് ക്വിസ്സൻറ് കറണ്ട് ആണ് പ്രധാനം റെഗുലേറ്ററിന് റെഗുലേഷൻ നൽകാനും നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാ സവിശേഷതകളും നൽകാനും മൈക്രോ ആമ്പിയറുകളിൽ വ്യക്തമായി സൂചിപ്പിക്കുന്ന നിലവിലെ കറന്റ് സ്ഥിരതയാർന്നതായിരിക്കണം അത് നിങ്ങൾക്ക് സ്ഥിരമായ ഔട്ട്പുട്ട് നിരന്തരമായ നോയ്സ് ഇല്ലാത്ത ഏതെങ്കിലും ലോഡ് വോൾട്ടേജിന്റെ ഏറ്റക്കുറച്ചിലുകൾ ബാധിക്കാതെകൃത്യമായ ഔട്ട്പുട്ട് നൽകും ഈ സവിശേഷതകളെല്ലാം ധാരാളം കറന്റ് ഉപയോഗിക്കാതെ തന്നെ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ സ്ഥായിയായ കറന്റ് എന്ന് വിളിക്കുന്നത് അതിനാൽ ഈ ക്വിസന്റ് കറണ്ടിനെ സൂചിപ്പിക്കുന്നത് ഐ ക്യു ആണ് ഇത് മൈക്രോ ആമ്പിയർ ക്രമത്തിലാണ് അത് റെഗുലേറ്ററിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് നിങ്ങൾ റെഗുലേറ്ററിനുള്ളിൽ പോയാൽ എങ്ങനെ ആയിരിക്കും ഉള്ളിലേക്ക് നോക്കുക ചിത്രത്തിനുള്ളിലെ സാധാരണ ഡ്രോപ്പ് ഔട്ട് റെഗുലേറ്ററിന്റെ ചിത്രം വരയ്ക്കാം ആദ്യത്തേത് ആംപ്ലിഫയറിന്റെ പ്ലസ് മൈനസ് ആണ് ആംപ്ലിഫയർ പല തരത്തിൽ നിർമ്മിക്കാൻ കഴിയും കൂടാതെ ഒരു ഓപ് ആംപിനെ ഒരു ആംപ്ലിഫയറായി ചിന്തിക്കാനും കഴിയും ഇവിടെ നമ്മൾ ഒരു റഫറൻസ് വോൾട്ടേജ് നൽകുന്നു എവിടെയെങ്കിലും നിങ്ങൾ ഇത് നൽകാൻ പോകുന്നു അതിനാൽ ഞാൻ ഈ ആംപ്ലിഫയറിനെ ശരിയായി വിളിക്കും എവിടെയോ ഒരു ഇൻപുട്ട് വി ഐഉണ്ട് ഒപ്പം വിഔട്ട് ഉണ്ട് അതിനിടയിൽ ഈ ആക്ടീവ് ഉപകരണം ഇത് എൻ മോസ്ഫെറ്റാണ് ഇത് ഡിപ്ലിഷൻ മോഡിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് വി ഐവിഔട്ട് മാറ്റാം എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും ഭാവനാപരമായ എല്ലാ ഉദ്ദേശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഭാഗം ഇതുപോലെ ആക്കാൻ കഴിയും ഇത് പൂർണ്ണമായിട്ടില്ല ഈ പിൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഈ തുല്യത കുറച്ച് കഴിഞ്ഞ് ഞാൻ എഴുതാം ഈ ചിത്രം പൂർത്തിയാക്കി ഈ പോയിന്റ് എടുത്ത് ബന്ധിപ്പിക്കുന്നു ഇത് തീർച്ചയായും ലോഡ് ആണ് ഇത് മറ്റൊന്നുമല്ല ഫീഡ്ബാക്ക് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം ഒരു പൊട്ടൻഷ്യോമീറ്റർ ഒരു വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിച്ച് ഈ ഭാഗം മാറ്റാൻ കഴിയും ഇതൊരു പാസ് ഘടകമാണ് ഇവിടെ നിങ്ങൾ ഇതിൻറെ കണ്ടക്ടിവിറ്റിയിൽ വ്യത്യാസം വരുത്തുന്നു ആ വ്യതിയാനം എപ്പോൾ സംഭവിക്കും ആ വ്യതിയാനം സംഭവിക്കുന്നത് ലളിതമായ താരതമ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആ താരതമ്യം വി റെഫ് വീ ഔട്ട് എന്നിവ തമ്മിലാണ് ഈ വ്യത്യാസം ആംപ്ലിഫൈ ചെയ്തു ഈ n മോസ്ഫെറ്റ് സീരീസ് ഘടകത്തിന്റെ ഗേറ്റ് ഇൻപുട്ടിലേക്ക് നൽകുകയും ചെയ്യുന്നു ഇത് വി ഐ യിൽ നിന്ന് വി ഔട്ടിലേക്കുളള ചാലകത്തെ വർദ്ധിപ്പിക്കുന്നു അതുവഴി ഈ വി ഔട്ടിനെ എല്ലായ്പ്പോഴും ഒരു നിശ്ചിത വോൾട്ടേജിൽ നിലനിർത്തുന്നു ആർ എൽ വർദ്ധിക്കുമ്പോഴെല്ലാം കറണ്ട് കുറയുന്നു ആ വ്യത്യാസം ഈ ഘട്ടത്തിൽ ഫീഡ്ബാക്ക് പോയിന്റിൽ കണ്ടെത്തുന്നു പ്രധാനമായും ഫീഡ്ബാക്ക് പോയിന്റും റഫറൻസ് പോയിന്റും തമ്മിലുള്ള വ്യത്യാസം താരതമ്യപ്പെടുത്തുന്നു ഇത് ആംപ്ലിഫൈ ചെയ്തു സീരീസ് പാസ് എലമെന്റിന്റെ ഗേറ്റിലേക്ക് നൽകപ്പെടുന്നു ഇത് ചാലകശക്തി വർദ്ധിപ്പിക്കുകയും വി ഔട്ടിനെ നിയന്ത്രണത്തിലേക്ക് തിരികെ കൊണ്ടുവരുകയും ചെയ്യുന്നു കറന്റ് കുറയുകയാണെങ്കിൽ തിരിച്ചും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു ഈ രീതിയിൽ ഈ സിസ്റ്റം മുഴുവൻ ലൂപ്പിനെയും നിയന്ത്രണത്തിലാക്കുന്നു അവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് നിയന്ത്രണ സിഗ്നൽ നിരന്തരം ആണ് കൂടാതെ കറണ്ടും നിരന്തരം ആണ് റെഗുലേറ്റർ ഒരു ലീനിയർ റെഗുലേറ്ററാണെന്ന വസ്തുതയെ നിർവചിക്കുന്ന 2 പ്രധാന സവിശേഷതകളാണിത് നിയന്ത്രണ സിഗ്നലും കറണ്ടും സമയത്തിനനുസരിച്ച് ഇടവിടാതെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനുമിടയിൽ കണക്റ്റുചെയ്തിരിക്കുന്ന സീരീസ് പാസ് സ്വിച്ച് നിയന്ത്രിക്കപ്പെടുന്നു എന്ന വസ്തുത എളുപ്പത്തിൽ നിർവചിക്കാൻ കഴിയും നിയന്ത്രണ സിഗ്നൽഎല്ലായ്പ്പോഴും വി ഔട്ടിനെ നിയന്ത്രിക്കും ഈ ലളിതമായ സർക്യൂട്ട് പ്രധാനമായും നിരവധി കാര്യങ്ങൾ നൽകി നമ്മൾ വരച്ച അത്തരമൊരു സർക്യൂട്ട് എന്തെന്നാൽ ലോ ഡ്രോപ്പ് ഔട്ട് റെഗുലേറ്റർ സ്ഥിരതയുള്ളതാണ് നോയ്സ് ഇല്ല കൃത്യത തുടങ്ങിയ സവിശേഷതകളുണ്ട് മാത്രമല്ല എൽഡിഒയ്ക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് പ്രകടനം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുണം നിങ്ങൾ ഡാറ്റ ഷീറ്റുകൾ നോക്കുമ്പോൾ ഈ സവിശേഷത കൂടി പരിശോധിക്കേണ്ടതുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ഈ ബ്ലോക്ക് എന്ന് നമുക്ക് നോക്കാം ഈ ബ്ലോക്ക് എ നമ്മൾ ഇപ്പോൾ ഗ്ലാസ് ചെയ്യുന്നു പക്ഷേ ആ ബ്ലോക്ക് എന്താണെന്ന് നിർവചിക്കുന്നതിനുമുമ്പ് ആ ബ്ലോക്ക് യഥാർത്ഥത്തിൽ ഒരു സ്വിച്ചിംഗ് റെഗുലേറ്ററാണ് നമ്മൾ ഇത് ഇതിനകം പരാമർശിച്ചു ഇത് ഒരു സ്വിച്ചിംഗ് റെഗുലേറ്ററാണ് കാരണം ഇതിന് എസി ഇൻപുട്ട് എടുക്കാം ഇതിന് ഡിസി ഇൻപുട്ടും എടുക്കാം ഇത് പ്രധാനമാണ് ഈ സ്വിച്ചിംഗ് റെഗുലേറ്ററിനുള്ളിൽ ആന്തരികമായി എങ്ങനെ കാണപ്പെടും നമ്മൾ ഇവിടെ കാണിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ ഒരു ആംപ്ലിഫയർ ഉണ്ട് കൂടാതെ ഒരു അധിക ബ്ലോക്കും ഉണ്ട് ഇത് പൂർണ്ണതയ്ക്കായി ഞാൻ ഇപ്പോൾ ചെയ്യും നിയന്ത്രണ സിഗ്നൽ ഉണ്ട് കറണ്ട് സമയബന്ധിതമായി കണ്ടിന്യുയ്സ് അല്ല നിയന്ത്രണ സിഗ്നലും സമയബന്ധിതമായി കണ്ടിന്യുയ്സ് അല്ല അതിനാൽ ഒരു സ്വിച്ചിംഗ് റെഗുലേറ്ററിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം കാണിച്ചുകൊണ്ട് ഇത് പൂർത്തിയാക്കാം നിങ്ങൾക്ക് ഒരു റഫറൻസ് ആവശ്യമാണ് കൂടാതെ നിങ്ങൾക്ക് മറ്റൊരു ബ്ലോക്ക് ആവശ്യമാണ് ഇതിനെ പി ഡബ്ല്യു എം ബ്ലോക്ക് എന്നും വിളിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഒരു അനലോഗ് സിഗ്നൽ ലഭിക്കുന്നു പിന്നീട് ഒരുതരം ഡിജിറ്റൽ പൾസുകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും അത് എനർജി ബ്ലോക്കിലേക്ക് കൊടുക്കുന്നു ഞാൻ എനർജി ട്രാൻസ്ഫർ ബ്ലോക്ക് എന്ന് വിളിക്കും ഈ എനർജി ട്രാൻസ്ഫർ ബ്ലോക്കിന് ഇൻഡക്ടറുകളും സ്വിച്ചുകളും ഉണ്ട് അതിനാൽ ഇത് നീക്കം ചെയ്യട്ടെ അങ്ങനെ എനിക്ക് MOSFET പോലുള്ള ആക്ടീവ് സ്വിച്ചുകൾ സൂചിപ്പിക്കാൻ കഴിയും ഇൻഡക്റ്ററുകൾ കപ്പാസിറ്ററുകൾ inductorscapacitorsഉള്ളതിനാൽ ആത്യന്തികമായി അവയെല്ലാം കണക്റ്റുചെയ്തിരിക്കുന്ന മറ്റൊരു കപ്പാസിറ്ററുമായി വി ഔട്ടിലേക്ക് നയിക്കുന്നു ഇത് നമ്മൾക്ക് ശരിക്കും മനോഹരമായ ഒരു ഡിസി നൽകുന്നില്ല വി ഔട്ട് എഴുതട്ടെ ഇവിടെയുള്ള ഡിസി തികച്ചും നേരായതാണ് തികച്ചും ശരിയായ ഔട്ട്പുട്ട് സിഗ്നൽ ഇല്ല ഒരു എൽഡിഒയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ അൽപ്പം ഉപയോഗമില്ലാത്ത സിഗ്നൽ ലഭിച്ചേക്കാം അത് നിങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇത് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനായിരിക്കണം ഒരുപക്ഷേ ഇത് ഡിസി ആയി തോന്നാം ചിലപ്പോൾ ഇതുപോലെയാകാം ഒരു ഫ്രീക്വൻസി ഘടകമുണ്ട് എല്ലാ ആവൃത്തി ഘടകങ്ങളും പൂജ്യമാക്കുക എന്നതാണ് നിങ്ങളുടെ മുഴുവൻ ഉദ്ദേശവും അതിലൂടെ നിങ്ങൾക്ക് മനോഹരമായ ഡിസി സിഗ്നൽ തിരികെ ലഭിക്കും ഇതിനെ വി ഔട്ട് എന്ന് വിളിക്കും അതിനാൽ നിങ്ങൾക്ക് എങ്ങനെ വി ഔട്ട് ലഭിക്കും എന്നതാണ് ചോദ്യം എൽഡിഒയ്ക്ക് യഥാർത്ഥത്തിൽ അതും ചെയ്യാൻ കഴിയും ഇതിന് ഒരു ഡിസിക്ക് മുകളിലൂടെ മാറികൊണ്ടിരിക്കുന്ന എസി ഘടകം മാറ്റാനും ആവൃത്തി ഘടകങ്ങൾ പരമാവധി ഫിൽട്ടർ ചെയ്യാനും നിങ്ങൾക്ക് സ്ഥിരമായ ഡിസി ഔട്ട്പുട്ട് നൽകാനും കഴിയും അതിനാൽ എൽഡിഒക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പ്രധാന കാര്യമാണിത് സ്വിച്ചിംഗ് റെഗുലേറ്ററിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഈ ലീനിയർ റെഗുലേറ്ററിന്റെ ചർച്ച പൂർത്തിയാക്കാം ഈ ലീനിയർ റെഗുലേറ്ററിന്റെ സാധാരണ ആപ്ലിക്കേഷനുകൾ കോഴ്സിൽ കാലക്രമേണ നമ്മൾ കാണും എംബഡഡ് ആയ ലോകത്തിലെ അപ്ലിക്കേഷനുകളാണ് നിങ്ങൾ ഒരു ഐഒടി സിസ്റ്റം രൂപകൽപ്പന ചെയ്യുമ്പോൾ പ്രധാനം അതിനാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ച ഈ ഭാഗം നിങ്ങൾ ഓർക്കുക വളരെ വേഗതയുള്ള പ്രതികരണം സൂചിപ്പിക്കാൻ ചില സംഖ്യകൾ എഴുതാം എല്ലാം റെഗുലേറ്ററിന്റെ ബാൻഡ്വിഡ്ത്തിലേക്ക് നയിക്കുന്നു ഈ പ്രത്യേക നമ്പറിനെക്കുറിച്ച് പറയുന്ന ഒരു സവിശേഷത നിങ്ങൾ ഡാറ്റ ഷീറ്റിൽ തിരയണം അതിനാൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുകയും ഈ എൽഡിഒയെക്കുറിച്ചുള്ള ചില കേസ് പഠനങ്ങൾ പരിശോധിക്കുകയും ചെയ്യും

സ്വിച്ചിംഗ് റെഗുലേറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതികരണ സമയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എളുപ്പമാണ് അത് ഒന്നുമല്ല പക്ഷേ ഇത് ഈ ബ്ലോക്ക് എ അതിനാൽ ഇവിടെ എല്ലാം ശരിയായി എഴുതാം ഇതാണ് സ്വിച്ചിംഗ് റെഗുലേറ്റർ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ വളരെ മനോഹരമാക്കി കാരണം ഇത് ഈ 5 2 വോൾട്ടുകളിലേക്ക് കൊണ്ടുവന്നു അതിനാൽ നിങ്ങൾക്ക് പ്രതികരണ സമയത്തെക്കുറിച്ച് ഒരുമിച്ച് സംസാരിക്കാൻ കഴിയും മാത്രമല്ല ഇത് ഒറ്റയടിക്ക് കൈകാര്യം ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇത് ഒരു പ്രധാന കാര്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാം ഇപ്പോൾ വേഗമുളള എൽഡിഒ നോക്കാം സ്വിച്ചിംഗ് റെഗുലേറ്റർ മന്ദഗതിയിലാകുന്നത് എന്തുകൊണ്ടാണ് ഇത് മന്ദഗതിയിലാണ് കാരണം ഒരു അനലോഗ് സിഗ്നൽ ഒരു പൾസ് ട്രെയിനായി പരിവർത്തനം ചെയ്യപ്പെടുന്നു

നമ്മൾ അവിടെ പോകുന്നതിനുമുമ്പ് അതെ ഈ ബ്ലോക്ക് നോക്കാം ഇതിനും ഫീഡ്ബാക്ക് കിട്ടുന്നു ഇത് പൂർത്തിയാക്കാം അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ ബന്ധിപ്പിക്കും വ്യക്തമായും ലോഡിൽ നിന്ന് വി ഔട്ട് നിങ്ങൾ സാമ്പിൾ ചെയ്യേണ്ടതാണ് ഈ ചിത്രങ്ങൾ കാണിക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കുക ലീനിയർ റെഗുലേറ്റർ എവിടെയാണെന്ന് നോക്കട്ടെ അതിനാൽ ഒരു ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കായിരിക്കുമ്പോഴെല്ലാം നമ്മൾ ചെയ്യുന്നതെന്താണെന്ന് നോക്കൂ അതിനാൽ ഇവിടെയും ഇത് സ്ഥിരമായിരിക്കണം അത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ലീനിയർ ആംപ്ലിഫയറിന്റെ നെഗറ്റീവ് ഇൻപുട്ടിലാണ് യഥാർത്ഥത്തിൽ നൽകുന്നത് ഇത് എറർ ആംപ്ലിഫയറാണ് ഇപ്പോൾ ഇവിടെയുള്ള അനലോഗ് സിഗ്നൽ ഒരു പൾസ് ട്രെയിനായി പരിവർത്തനം ചെയ്യുന്നു അത് എളുപ്പമല്ല അനലോഗ് സിഗ്നൽ ഒരു പൾസ് ട്രെയിനിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നതിനർത്ഥം നിങ്ങൾക്ക് ഒരു ക്ലോക്ക് ആവശ്യമാണ് കമ്പ രേറ്റേഴ്സ് ആവശ്യമാണ് ഓവർലാപ്പുചെയ്യാത്ത ഡിജിറ്റൽ ഡ്രൈവറുകൾ നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം നിങ്ങൾക്ക് ഒരു ത്രികോണ തരംഗ ജനറേറ്റർസോ ടൂത്ത് ത്രികോണ തരംഗ ജനറേറ്റർ ആവശ്യമാണ് അതിനാൽ ഇതെല്ലാം അർത്ഥമാക്കുന്നത് ധാരാളം സർക്യൂട്ടുകൾ അധിക ഘടകങ്ങൾ ധാരാളമാണ് ഈ ബ്ലോക്ക് ലളിതമാകില്ല ഞാൻ ഇത് ഈ ബ്ലോക്ക് ആയി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് ലളിതമല്ല ധാരാളം ഘടകങ്ങളും നിരവധി ഘടകങ്ങളും ക്ലോക്ക് കമ്പരേറ്റേഴ്സ് മറ്റും ഉണ്ട് ഈ ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് സ്ഥിരമായി തുടരണമെങ്കിൽ ബാൻഡ്വിഡ്ത്ത് സ്വിച്ചിംഗ് ഫ്രീക്വൻസിക്ക് താഴെയായിരിക്കണം സ്ഥിരമായ ഔട്ട്പുട്ടിനായി ഇത് സ്വിച്ചിംഗ് ആവൃത്തിക്ക് താഴെയായിരിക്കണം ഈ ഉപകരണങ്ങൾ ഒരു നിശ്ചിത ആവൃത്തിയിൽ മാറുന്നു ഔട്ട്പുട്ട് വി ഔട്ട് നിലനിർത്തുന്നതിന് ഈ ഘടകങ്ങളുടെ സ്വിച്ചിംഗ് ആവൃത്തി കൃത്യമായി ഒരു പത്തിൻറെ ഗണം കുറവാണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം അപ്പോൾ മാത്രമേ നെഗറ്റീവ് ഫീഡ്ബാക്ക് സ്ഥിരമായിരിക്കുകയുളളൂ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വി ഔട്ട് ലഭിക്കാൻ ഈ വ്യവസ്ഥ യഥാർത്ഥത്തിൽ പാലിച്ചാൽ മാത്രമേ മുഴുവൻ നിയന്ത്രണവും സംഭവിക്കുകയുള്ളൂ അതിനർത്ഥം നിങ്ങൾ വളരെ ഉയർന്ന വേഗതയിൽ സ്വിച്ചിങ് നടത്തുന്നില്ല എന്നാണ് ഇതിനർത്ഥം ഈ സ്വിച്ചിംഗ് നോയ്സ് ഇല്ലാതാക്കുന്നത് എളുപ്പമല്ല അതിനാൽ ഡിസി ഔട്ട്പുട്ടിന് മുകളിൽ നിങ്ങൾക്ക് ഈ ഫ്രീക്വൻസിഘടകമുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് സ്വിച്ചിംഗ് ആവൃത്തി വലുതാക്കാം നിങ്ങൾക്ക് കഴിയും പക്ഷേ നിങ്ങൾ സ്വിച്ചിംഗ് ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വിച്ചിംഗ് നഷ്ടം ഉയർന്നതായിരിക്കും എന്നതിന് സംശയമില്ല നിങ്ങൾക്ക് ധാരാളം സ്വിച്ചിംഗ് നഷ്ടങ്ങൾ ഉണ്ടാവാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല കൂടാതെ സ്വിച്ചിംഗ് നഷ്ടങ്ങൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ സ്വിച്ചിംഗ് നഷ്ടങ്ങൾ ഇല്ലാതാക്കേണ്ടതുണ്ട് ഉയർന്ന റേറ്റിംഗുള്ള ഘടകങ്ങൾ നിങ്ങൾക്കാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം അതു കൂടാതെ നിങ്ങൾക്ക് ഒരു ഹീറ്റ് സിങ്കും മറ്റും ആവശ്യമായി വന്നേക്കാം അതിനാൽനിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് സുസ്ഥിരമായിരിക്കാൻ അതിനർത്ഥം സിസ്റ്റം യഥാർത്ഥത്തിൽ സ്വിച്ചിംഗ് ഫ്രീക്വൻസിയിൽ മാറുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് യഥാർത്ഥമായി നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് കുറഞ്ഞത് ഒരു ദശകമെങ്കിലും കുറവാകണം അതിനാൽ അതാണ് പ്രധാന കാര്യം അതിനാൽ ഇതെല്ലാം അർത്ഥമാക്കുന്നതിനായി കുറച്ച് നമ്പറുകൾ എഴുതാം നിങ്ങൾ ഒരു സ്വിച്ചിംഗ് റെഗുലേറ്റർ എടുക്കുകയാണെങ്കിൽ അത് 2 മുതൽ 8 മൈക്രോസെക്കൻഡുകൾക്കിടയിൽ പ്രതികരിക്കും അതിനാൽ സാധാരണഗതിയിൽ ഇത് 0 25 മൈക്രോസെക്കൻഡ് മുതൽ ഒരു മൈക്രോസെക്കൻഡ് വരെ ചെയ്യും അതിനാൽ ഇത് ശരിക്കും വേഗതയുള്ളതാണ് ശരിക്കും വളരെ വേഗത എന്തുകൊണ്ടാണെന്നാൽ ഇതിന് വളരെ കുറച്ച് ഘടകങ്ങളാണുള്ളത് ഒരു എൽഡിഒയെ വിശദീകരിക്കുന്നത് എത്ര എളുപ്പമാണ് ചിപ്പ് വളരെ ലളിതമാണ് ഇതിന് ഒരു വി ഐ നൽകുക ഇൻപുട്ട് കപ്പാസിറ്ററിനെ ഗ്രൌണ്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പിൻ ഉണ്ടാകും അതിനെ സി ഐ എന്ന് വിളിക്കാം നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നതിനായി 2 റെസിസ്റ്ററുകൾ ബന്ധിപ്പിക്കുക ഔട്ട്പുട്ട് കപ്പാസിറ്ററും ഉണ്ടായിരിക്കുകഇതാണ് വി ഔട്ട് വളരെ ലളിതമായി തോന്നുന്നു ചിലപ്പോൾ ഒരു പിൻ ഉപയോഗിച്ച് ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം എനാബിൾ പിൻ ഒന്നാണെങ്കിൽ മാത്രം ഇൻപുട്ട് യഥാർത്ഥത്തിൽ ഔട്ട്പുട്ടിലേക്ക് സ്വിച്ച് ചെയ്യുന്നു നിരവധി പവർ മാനേജുമെന്റ് അൽഗോരിതങ്ങളിൽ വളരെ ഉപയോഗപ്രദമാണ് നമ്മൾ ഈ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് ഒരു പിൻ വഴി ആണ് നിങ്ങൾ പവർ ഫലപ്രദമായി മാനേജുചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഇത് എത്രത്തോളം നൂതനമായി ഉപയോഗിക്കാമെന്നും നോക്കും അതിനാൽ ഈ സർക്യൂട്ടിന്റെ പ്രധാന കാര്യം എന്താണ് ഇത് നിങ്ങൾ ഈ കപ്പാസിറ്റർ സി ഔട്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് കാരണം ഇത് റെഗുലേറ്ററിന്റെ സ്ഥിരതയെ ബാധിക്കുന്നു അതിനാൽ ഔട്ട്പുട്ട് കപ്പാസിറ്റർ ഇവിടെ ഒരു പ്രധാന ഘടകമാണ് സാധാരണയായി ഇത് ടൻടാലം അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് ആണ് ഈ എൽഡിഒയെക്കുറിച്ചും ഒരു എൽഡിഒയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യും നിങ്ങളുടെ എംബഡഡ് ഐഒടി രൂപകൽപ്പനയ്ക്കായി ഒരു എൽഡിഒയെ നിങ്ങൾ തെറ്റായി തിരഞ്ഞെടുത്താൽ പ്രതികരണ സമയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഊർജ്ജ ഉപഭോഗത്തിന്റെ കാര്യത്തിലും സിസ്റ്റം ദുരന്തങ്ങളുണ്ടാക്കും നിങ്ങൾക്ക് ഇവിടെ ചാഞ്ചാട്ടമുണ്ടായ വിട്ടുവീഴ്ച ചെയ്യുന്നതിന്ഇൻപുട്ട് ലഭിച്ചുവെന്ന്നമ്മൾ ഈ ചിത്രത്തിൽ നമ്മൾ കാണിച്ചു അതിനാൽ ഞാൻ ഒരു ചിത്രം വരച്ചു ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ട് ഡിസി എടുത്തു അതിൽ ഒരു നിശ്ചിത ആവൃത്തി ഘടകമുണ്ട് ഔട്ട്പുട്ടിൽ ഒരു സ്ഥിരതയുള്ള ഡിസി സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചുഒരു എൽഡിഒക്ക് ഈ തന്ത്രം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു ഈ തന്ത്രം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങൾ ഉചിതമായ രീതിയിൽ ഈ ഘടകം തിരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഐഒടി സിസ്റ്റത്തിന്റെ ഉപ ഒപ്റ്റിമൽ രൂപകൽപ്പനയിൽ നിങ്ങൾ അവസാനിക്കും അതിനാൽ വളരെ പ്രചാരമുള്ള ലേഖനങ്ങളിൽ നിന്നുള്ള കുറച്ച് കേസ് പഠനങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒരു പ്രത്യേക ആപ്ലിക്കേഷനായി ട്യൂണിംഗും ഒരു എൽഡിഒ തിരഞ്ഞെടുക്കുന്നതും എങ്ങനെ ഗവേഷകർ ശരിക്കും നോക്കിക്കാണുന്നു എന്നു നോക്കാം

അതിനാൽ നമ്മൾ നിങ്ങൾക്ക് 3 പരീക്ഷണങ്ങൾ ഇവിടെ കാണിക്കും ആദ്യ പരീക്ഷണം ലോഡ് കറന്റ് വർദ്ധിക്കുമ്പോൾ വ്യത്യസ്ത ലോഡുകൾ ബന്ധിപ്പിക്കുമ്പോൾ അവ സ്വിച്ചുചെയ്യുമ്പോൾ കൂടാതെ ലോഡ് കറന്റ് മാറുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ടിന് എന്ത് സംഭവിക്കും എന്നതാണ് അതെല്ലാം നിങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഇവിടെ സജ്ജീകരിച്ച ഒരു കാര്യമാണ് ഒരു പവർ സപ്ളൈ ഉണ്ട് അതിന് മുകളിൽ നമ്മൾ ഒരു ഡിസി ഇലക്ട്രോണിക് ലോഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് പരിഷ്കരിക്കാൻ കഴിയുന്നത് വ്യത്യസ്ത ഔട്ട്പുട്ട് കറൻറ്കൾ നമുക്ക് സജ്ജമാക്കാനാകും ഇടത് വശത്തെ മീറ്റർ അങ്ങേയറ്റം ഇടത് വശത്ത് ഇൻപുട്ട് വോൾട്ടേജ് നിങ്ങൾ കാണുന്ന രണ്ടാമത്തേത് മൾട്ടിമീറ്റർ ഇൻപുട്ട് കറന്റ് പവർ സപ്ലൈയ്ക്ക് ശേഷം നിങ്ങൾ കാണുന്ന ആദ്യ മൾട്ടിമീറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജും വലത് ഭാഗത്തുള്ള രണ്ടാമത്തെ മൾട്ടിമീറ്റർ ഔട്ട്പുട്ട് കറന്റാണ് അതിനാൽ നിങ്ങൾക്ക് ആദ്യത്തെ നിരീക്ഷണം നോക്കാം ഇൻപുട്ട് വോൾട്ടേജ് 10 വോൾട്ട് ഔട്ട്പുട്ട് 5 വോൾട്ട് ആയിരിക്കണം അതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അതെ ഇത് ഒരു എൽഡിഒ ആണ് ഇത് 5 വോൾട്ട് ഔട്ട്പുട്ടായി സജ്ജീകരിച്ചിരിക്കുന്നു ഔട്ട്പുട്ട് കറന്റ് 25 ആയിരിക്കണം എന്നാൽ ഇൻപുട്ടിൽ 25നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നത് 24 നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം യഥാർത്ഥത്തിൽ ഒരു ക്യൂസെൻറ് കറൻറ് ഉണ്ടെന്നും ക്യൂസെൻറ് കറൻറ് ഡ്രോപ്പ് dropഎൽഡിഒയിലുടനീളം ഉണ്ടെന്നും മനസിലാക്കി അതിനാലാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ 1മില്ലിയാംപിയർ കുറച്ച് ലഭിക്കുന്നത് അതിനാൽ ഇപ്പോൾ ഇവിടെ നിലവിലുള്ള കറൻറ് ഉപഭോഗം 25 മില്ലിയാംപിയറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഔട്ട്പുട്ട് കറന്റ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഔട്ട്പുട്ട് കറന്റ് വർദ്ധിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനാൽ 100 ൽ നിന്ന് നമ്മൾ 125 മില്ലീആംപിയർ ഔട്ട്പുട്ട് കറന്റിലേക്ക് നീങ്ങി അതെ ഇപ്പോഴും നിയന്ത്രണത്തിലാണെന്ന് തോന്നുന്നു 4 95 വോൾട്ട് 5 വോൾട്ടിനടുത്ത് സജ്ജമാക്കിയിട്ടുണ്ടെന്നും നിങ്ങൾക്ക് ഔട്ട്പുട്ട് ലോഡ് 124 ആണെന്നും ഇത് 127 ആയിരുന്നു ഇപ്പോൾ 150 ൽ ഇത് 149 ഔട്ട്പുട്ടിൽ 152 ആണെന്ന് നിങ്ങൾ കാണുന്നു അതായത് ലോഡ് കറന്റ് കൂടുമ്പോൾ ഇൻപുട്ട് കറന്റും ലോഡ്കറന്റും തമ്മിലുള്ള വ്യത്യാസം വർദ്ധിക്കുന്നു അതിനാൽ ഇത് 3 മില്ലിയാംപിയറാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടുതൽ ഉയർന്ന ഔട്ട്പുട്ട് പവർ നൽകുമ്പോൾ എൽഡിഒയും ധാരാളം ഊർജ്ജം നഷ്ടപ്പെടുത്തുന്നു മറ്റൊരു പരീക്ഷണത്തിൽ നമുക്ക് പ്രത്യേകം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത് അതിനാൽ ഇവിടെ വലിയ സംഗ്രഹം എന്തെന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട് ലോഡ് കറൻറിലും വി ഔട്ട് സ്ഥിരതയുള്ളതാണ് ഔട്ട്പുട്ട് കറന്റിന് 24 മില്ലി ആമ്പിയർ ആവശ്യമാണെങ്കിൽ തീർച്ചയായും അത് പവർ സപ്ലൈയിൽ നിന്നാണ് വരേണ്ടത് പവർ സപ്ലൈ ആണ് ഇൻപുട്ട് കറന്റ് വർദ്ധിപ്പിക്കേണ്ടത് ആ പവർ സപ്ലൈയ്ക്ക് ഇൻപുട്ട് കറന്റ് നൽകാൻ കഴിയും അതിനാൽ ഇത് ഒരു വലിയ സംഗ്രഹമാണ് ലോഡ് കറന്റ് മാറിക്കൊണ്ടിരിക്കുമ്പോഴും എൽഡിഒയ്ക്ക് വി ഔട്ട് നിലനിർത്താൻ കഴിയും അതിനാൽ ഇവിടെ ഒരാൾക്ക് ചോദിക്കാൻ കഴിയുന്ന അടുത്ത ചോദ്യം ഇൻപുട്ട് വോൾട്ടേജ് മാറുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നതാണ് ഇടത് വശത്ത് ഇൻപുട്ട് വോൾട്ടേജ് ഉള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഇൻപുട്ട് കറന്റാണ് ഇത് ഔട്ട്പുട്ട് വോൾട്ടേജാണ് വലതുവശത്ത് ഔട്ട്പുട്ട് കറന്റ് മീറ്ററാണ് പവർ സപ്ലൈയുടെ വശത്ത് ഔട്ട്പുട്ടാണ് ഇൻപുട്ട് ഇടതുവശത്താണ് ഇൻപുട്ട് മൾട്ടിമീറ്ററുകളും ഇടതുവശത്താണ് ഇൻപുട്ട് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ലോഡിംഗ് ഉപയോഗിക്കുമെന്ന് ഇപ്പോൾ നോക്കാംഒരു ഇലക്ട്രോണിക് ലോഡ് തുടർന്ന് ഒരു നിശ്ചിത അളവിലുള്ള കറന്റ് കൊടുക്കുന്നു ഡിസി ഇലക്ട്രോണിക് ലോഡിലേയ്ക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന മൂല്യവും നോക്കുന്നു ഇലക്ട്രോണിക് ലോഡ് 25 മില്ലി ആമ്പിയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു ലോഡ് കറന്റ് 25 മില്ലിയാംപിയറുകളായി നിശ്ചയിക്കുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് 10 മുതൽ 30 വോൾട്ട് വരെ മാറ്റുകയും ചെയ്യുന്നു ഇൻപുട്ട് വോൾട്ടേജ് 10 മുതൽ 30 വോൾട്ട് വരെ 5 ന്റെ ഗുണിതങ്ങളായി മാറ്റുമ്പോൾ സിസ്റ്റം ഔട്ട്പുട്ട് വോൾട്ടേജ് നിയന്ത്രണം തുടരുന്നതായും വിതരണം ചെയ്ത ഔട്ട്പുട്ട് പവറും അതേപടി തുടരുന്നതായും കാണാം അതിനാൽ അതാണ് വലിയ സംഗ്രഹം അവിടെ ഒരു നല്ല പട്ടികയുണ്ട് അത് യഥാർത്ഥത്തിൽ ഇത് എടുത്തുകാണിക്കുന്നു നമുക്ക് പട്ടിക നോക്കാം അതിനാൽ നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയും ഇൻപുട്ട് മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ഇൻപുട്ടിനെ 10 മുതൽ 30 വരെ വ്യത്യാസപ്പെടുത്തിയാലും ഔട്ട്പുട്ട് നിയന്ത്രണത്തിലാണ് അതിനാൽ ഇൻപുട്ട് വോൾട്ടേജ് മാറ്റം വകവയ്ക്കാതെ സിസ്റ്റങ്ങളിൽസ്ഥിരത തുടരുന്നു വോൾട്ടേജ് റെഗുലേറ്റർ സ്ഥിരത ഉണ്ടെന്ന് അത് വ്യക്തമാക്കുന്നു സമയം കാണുക 6220 ഇപ്പോൾ നമ്മൾ എന്തുചെയ്യും അതിൻറെ കാര്യക്ഷമത പഠിക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് വേഗത്തിൽ ഉത്തരം നൽകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യുന്നത് പവർ സപ്ലൈയുടെ മുകളിൽ നിങ്ങൾ കാണുന്ന ഇലക്ട്രോണിക് ലോഡിലെ ലോഡ് കറണ്ട് മാറ്റിക്കൊണ്ടിരിക്കും ഇൻപുട്ട് വോൾട്ടേജ് 8 വോൾട്ടായി നിശ്ചയിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇൻപുട്ട് 8 ആണെന്ന് നിങ്ങൾ കാണും ഇൻപുട്ട് കറന്റ് 50 മില്ലിയാംപിയർ ഔട്ട്പുട്ട് വോൾട്ടേജ് 4 9 ആണ് അത് 5 വോൾട്ടിനടുത്താണ് ഔട്ട്പുട്ട് കറന്റ് യഥാർത്ഥത്തിൽ 49 മില്ലിയാംപിയറാണ് ഇത് ശരിയാണെന്ന് തോന്നുന്നു ഈ ലോഡ് റെസിസ്റ്ററിലൂടെ കറന്റ് ഒഴുകുന്നു ഇപ്പോൾ നമ്മൾ പരിഷ്ക്കരിക്കും നമ്മൾ ഇൻപുട്ട് മാറ്റും നമ്മൾ ഔട്ട്പുട്ട് ലോഡ് കറന്റ് 75 മില്ലി ആമ്പിയറാക്കുകയും 24 മുതൽ 124 മില്ലിയാംപിയറുകൾ വരെ പരീക്ഷണം നടത്തുകയും ചെയ്യും അതിനാൽ ഫലങ്ങളുടെ സംഗ്രഹം വേഗത്തിൽ നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ട് 8 വോൾട്ടിൽ പരിപാലിക്കുന്നതായി അറിയാം output ഔട്ട്പുട്ട് ലോഡ് കറന്റ് 24 ൽ നിന്ന് 149 ലേക്ക് മാറിയിരിക്കുന്നു കാര്യക്ഷമത വലതുഭാഗത്ത് നിങ്ങൾക്ക് കാണാം പട്ടിക നിര ഏകദേശം 60കാര്യക്ഷമതയെ സൂചിപ്പിക്കുന്നു ഇത് 60 നിലനിർത്തുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇൻപുട്ടിനെ 8 ൽ നിന്ന് 10 വോൾട്ടിലേക്ക് മാറ്റുകയാണ് കൂടാതെ ഇലക്ട്രോണിക് ലോഡ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് ലോഡ് കറന്റ് 24ൽ നിന്ന് 124 ആയി വ്യത്യാസപ്പെടുന്നതായി നിങ്ങൾക്കറിയാം കാര്യക്ഷമത കുറഞ്ഞുവെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഐ ഔട്ട് ഐഇൻആണോ ഉത്തരം നൽകാൻ കഴിയും അതേഏകദേശം കാര്യക്ഷമത ലോഡ് കറന്റിനാൽ Io ഐ ഒ സ്വാധീനിക്കപ്പെട്ടിട്ടില്ല കാര്യക്ഷമത ഇൻപുട്ടിനാൽ സ്വാധീനിക്കപെടുന്നു അതെ വി ഐ കൂടുമ്പോൾ കാര്യക്ഷമത കുറയുന്നു അതിനാൽ ഇതാണ് വലിയ സംഗ്രഹം അതിനാൽ ഈ പട്ടിക പ്രധാനമായും കണ്ടെത്തുന്നത് ഡ്രോപ്പ് കണക്കാക്കാൻ കഴിയുന്ന തരത്തിൽ പരീക്ഷണം നടത്താമെന്നാണ് ലോഡ് കറന്റ് 24 മുതൽ 149 മില്ലിയാംപിയറിലേക്ക് മാറുന്നതായി നിങ്ങൾക്ക് കാണാം എൽഡിഒയിലുടനീളമുള്ള ഡ്രോപ്പും വർദ്ധിക്കുന്നുതാഴ്ന്ന കറണ്ടിൽ ഡ്രോപ്പ് കുറവാണ് 16 വോൾട്ട് നിങ്ങൾ ഉയർന്ന ഔട്ട്പുട്ട് ലോഡ് കറന്റുകൾ എടുക്കുമ്പോൾ എൽഡിഒയിലുടനീളമുള്ള ഡ്രോപ്പും കൂടുന്നുലോഡ് കറന്റിനൊപ്പംഎൽഡിഒയിലുടനീളമുള്ള പാഴാക്കുന്ന പവറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഇത് എൽഡിഒയുടെ വലിയ സംഗ്രഹമാണ് അതെ നിർത്തുന്നു വളരെയധികം നന്ദി